ഈ യൂണിറ്റിൽ നമ്മൾ നോഡൽ അനാലിസിസ് നോക്കും അതായത് സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിനായിട്ടുള്ള ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു വഴി നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു സർക്യൂട്ട് മുഴുവനായി പരിഹരിക്കുന്നതിന് നമുക്ക് 2B സമവാക്യങ്ങൾ വേണമെന്ന് അതായത് B എന്നു പറഞ്ഞാൽ ശാഖകളുടെ എണ്ണം കൂടാതെ നമ്മൾ കണ്ടതാണ് N നോഡ് B ശാഖകൾ ഉള്ള സർക്യൂട്ടിനു നമ്മൾ N മൈനസ് 1 കിർച്ചോഫ് കറണ്ട് ലോ സമവാക്യങ്ങൾ B മൈനസ് 1 കിർച്ചോഫ് വോൾടേജ് ലോസമവാക്യങ്ങൾ B ഘടകങ്ങളുടെ ബന്ധം എന്നിവ എഴുതും നമ്മൾ രണ്ട് ടെർമിനലുകൾ ഉള്ള ഘടകങ്ങൾ പരിഗണിക്കുന്നു പക്ഷേ ഈ കാര്യങ്ങൾ കൂടുതൽ ടെർമിനലുകൾ ഉള്ളതിലേക്ക് സാമാന്യവൽക്കരിക്കാം ഇപ്പോൾ നിങ്ങൾ ഇതിൽ ആദ്യം ഏതു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് നമുക്ക് KCL സമവാക്യങ്ങലോ KVL സമവാക്യങ്ങലോ എഴുതാം പലതരം അനാലിസിസ് ഉണ്ട് നിങ്ങൾ സർക്യൂട്ടിന്റെ N മൈനസ് 1 നോഡുകളിൽ നിന്ന് KCL സമവാക്യങ്ങൾ തുടങ്ങിയാൽ ഇത് നോഡൽ അനാലിസിസ് എന്നാണു അറിയപ്പെടുന്നത് കൂടാതെ നിങ്ങൾ KVL സമവാക്യങ്ങൾ തുടങ്ങിയാൽ സർക്യൂട്ടിന്റെ V മൈനസ് N പ്ലസ് 1 ലൂപ്പുകളിൽ ഇത് ലൂപ്പ് അനാലിസിസ് എന്നാണു അറിയപ്പെടുന്നത് അതിന്റെ രൂപാന്തരം ആണ് മെഷ് അനാലിസിസ് ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം നമുക്ക് ആദ്യം നോഡൽ അനാലിസിസ് പരിഗണിക്കാം അപ്പോൾ നിങ്ങൾ സർക്യൂട്ടിന്റെ N മൈനസ് 1 നോഡുകളിൽ നിന്ന് KCL സമവാക്യങ്ങൾ തുടങ്ങിക്കോളു ഇത് കുറച്ചുകൂടി പ്രയാസമുള്ള ഭാഗമായി വരും ഇത് കഴിഞ്ഞ് ഇതിൻറെ പരിഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കാം ഇതിൽ കിർച്ചോഫ് വോൾടേജ് ലോ നിങ്ങൾ ഉപയോഗിക്കും ഇത് ഒരു പ്രാധാന്യമേറിയ ഭാഗമാണ് ഇതിൽ നിന്ന് എല്ലാ വോൾട്ടേജ് ശാഖകളും കറണ്ട് ശാഖകളും കിട്ടുവാൻ എളുപ്പമാണ് അപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ നോക്കുന്നത് സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിനായിട്ടുള്ള ചിട്ടയോടുകൂടിയ വഴികൾ ആണ് ഇത് സ്വേച്ഛയാ വലുതാകാം ഉദാഹരണമായി തീർച്ചയായും നമ്മൾ കൈകൊണ്ട് കണക്കു കൂട്ടും നമ്മൾ പരിഗണിക്കുന്നത് ചെറിയ സർക്യൂട്ടുകൾ ആകും പക്ഷേ അതേ മാർഗ്ഗങ്ങൾ തന്നെ നമുക്ക് വലിയ സർക്യൂട്ടിലേക്കും ഉയർത്താം അപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ എടുക്കട്ടെ തുടക്കത്തിൽ റെസിസ്റ്ററുകളും സ്വതന്ത്ര കറണ്ട് സ്രോതസ്സുകളും അടങ്ങിയിട്ടുള്ള സർക്യൂട്ട് ഞാൻ പരിഗണിക്കട്ടെ പിന്നീട് നമ്മൾ ഇങ്ങനെ എന്തിനാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് സ്പഷ്ടമാകും ഇത് നോഡൽ അനാലിസിസിന്റെ ഏറ്റവും എളുപ്പമുള്ള കേസ് ആയി മാറും ഞാൻ ചില സർക്യൂട്ടുകൾ ഉദാഹരണമായി ചെയ്യുവാൻ എടുക്കട്ടെ അപ്പോൾ ഞാൻ കണക്കാക്കുന്ന സർക്യൂട്ട് 4 നോഡുകളും കുറച്ച് റെസിസ്റ്ററുകളും ഉള്ളതാണ് ഇവയെ ഞാൻ I1 I3 R11 R22 R33 R12 R23 എന്നിങ്ങനെ അടയാളപ്പെടുത്തട്ടെ അപ്പോൾ KCL സമവാക്യങ്ങൾ എഴുതുമ്പോൾ ഞാൻ എങ്ങനെ എഴുത്തും ഞാൻ എല്ലാ നോഡുകളും നോക്കും ഇവിടെ നാല് നോഡുകൾ ഉണ്ട് 1 2 3 4 നാല് നോഡുകളിൽ നിന്ന് ഞാൻ മൂന്നെണ്ണം തിരഞ്ഞെടുക്കും എന്നിട്ട് KCL സമവാക്യം എല്ലാ നോഡിനും എഴുത്തും ഇനി വകവയ്ക്കാതിരിക്കേണ്ടത് എനിക്ക് ഒരു നോഡ് KCL സമവാക്യം എഴുതുമ്പോൾ വിട്ടുകളയണം ഈ ഉദാഹരണത്തിൽ ഞാൻ ഇത് വിട്ടുകളയുന്നു എന്നിട്ട് KCL സമവാക്യം മൂന്ന് നോഡിലും എഴുതുന്നു ഇതിനെ ഞാൻ 1 2 3 എന്ന് അടയാളപെടുത്തുന്നു ഇനി എല്ലാ നോഡിലും ഞാൻ എഴുതും നോഡിലേക്ക് പോകുന്ന കറണ്ടുകളുടെ മൊത്തം തുക സ്വതന്ത്ര സ്രോതസ്സുകളിൽ നിന്ന് അകത്തേക്ക് വരുന്ന കറണ്ടിനു തുല്യമായിരിക്കും എന്ന് നമ്മൾ എല്ലാ സമവാക്യങ്ങളും ശരിയാകുന്ന വഴി ഇങ്ങനെയാണ് നമുക്ക് ചില അജ്ഞാത വേരിയബിളുകൾ തമ്മിൽ ബന്ധമുണ്ട് ചില പദാവലികളിൽ അജ്ഞാതമായ വേരിയബിളുകൾ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം സ്വതന്ത്ര സ്രോതസ്സുകൾക്ക് തുല്യമാണ് ഇവ അറിയപ്പെടുന്നത് ഇവ പരിഹരിക്കുന്നത് വഴിയാണ് നമ്മൾ അജ്ഞാത കാര്യങ്ങളെ പരിഹരിക്കും ഈ അജ്ഞാത വേരിയബിളുകൾചരങ്ങൾ പരിഹരിക്കും അപ്പോൾ സമവാക്യങ്ങൾ എഴുതുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് സ്വതന്ത്ര സ്രോതസ്സുകൾ ഉള്ള പദങ്ങൾ ഞാൻ വലതുവശത്തേക്ക് വെക്കുന്നു എന്നിട്ട് അജ്ഞാതമായ പദങ്ങൾ ഇടതുവശത്തേക്കും വെക്കുന്നു അപ്പോൾ അത്യാവശ്യമായി ഞാൻ എന്ത് എഴുതണം എന്ന് വെച്ചാൽ ഉദാഹരണമായി ഞാൻ കറണ്ട് എഴുതണം ഞാൻ അതിനെ ഇപ്പോൾ I11 എന്ന് വിളിക്കട്ടെ എന്നിട്ട് അവിടുത്തെ കറണ്ട് I12 അത് സ്വതന്ത്ര സ്രോതസ്സുകളിൽ നിന്ന് അകത്തേക്ക് വരുന്ന കറണ്ടിന് തുല്യമാണ് അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ എഴുതണം I11പ്ലസ് I12 I1 നു തുല്യം എന്ന് ഇനി റെസിസ്റ്ററിലൂടെ ഉള്ള കറണ്ട് I11 I12 ആണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുന്നത് രസിസ്റ്ററുകളും സ്വതന്ത്ര കറണ്ട് സ്രോതസ്സുകളും ഉള്ള സർക്യൂട്ട് ആണ് സ്വതന്ത്ര കറണ്ട് സ്രോതസ്സുകൾ വലതു വശത്തു കാണപ്പെടുന്നു അപ്പോൾ ഇടതുവശത്ത് അടങ്ങിയിട്ടുള്ളതെല്ലാം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ആണ് ഇനി ഇത് പരിഹരിക്കുന്നതിനായി ഞാൻ കുറച്ച് വേരിയബിളുകൾ തിരഞ്ഞെടുക്കണം ഞാൻ നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ഞാൻ തുടങ്ങുക KCL സമവാക്യങ്ങളിൽ നിന്നാണ് പക്ഷേ സമവാക്യങ്ങളിലെ പദങ്ങൾ എഴുതുമ്പോൾ ഞാൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ കൂടാതെ ഘടകങ്ങളുടെ ബന്ധം എന്നിവ ഉപയോഗിക്കും ഈ കേസിൽ റെസിസ്റ്ററുകളുടെ VI ബന്ധം ഞാൻ ഈ നോഡ് എടുക്കട്ടെ എന്നിട്ട് I11 നെ റെസിസ്റ്ററിന്റെ മൂല്യവും റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിലും എഴുതട്ടെ ഇനി നോഡൽ സമവാക്യം ശരിയാക്കുന്നതിനു മുൻപേ എനിക്ക് ചില വേരിയബിളുകൾ വോൾട്ടേജ് ആയിട്ട് തിരഞ്ഞെടുക്കുവാൻ ഉണ്ട് ഇത് ഞാൻ നോഡൽ അനാലിസിസിന്റെ സമവാക്യം എഴുതുമ്പോൾ പരിഹരിക്കും ഞാൻ വേരിയബിൾ ആയിട്ട് തിരഞ്ഞെടുക്കുക പൊതുവായ റഫറൻസ് നോഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോഡ് വോൾട്ടേജ് ആണ് റഫറൻസ് നോഡ് ആയിരിക്കും ഞാൻ KCL സമവാക്യം എഴുതാത്തത് ആയിട്ടുള്ള ആകെയുള്ള ഒരു നോഡ് അപ്പോൾ എല്ലാ നോഡ് വോൾട്ടേജും ഈ നോഡിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് റഫറൻസ് നോഡിൽ KCL സമവാക്യം നമ്മൾ എഴുതില്ല നമ്മുടെ സർക്യൂട്ടിൽ ഈ താഴെയുള്ള നോഡ് ആണ് റഫറൻസ് നോഡ് എനിക്ക് ഈ മൂന്ന് വേരിയബിളുകൾ ഉണ്ട് V1 V2 V3 എന്നിവ ഇവയാണ് റഫറൻസ് നോഡിനെ ആശ്രയിച്ചിട്ടുള്ള വോൾട്ടേജുകൾ ഞാൻ V1 എന്ന് പറയുമ്പോൾ അത് ഫറൻസ് നോഡിനെ ആസ്പതമാക്കിയിട്ട് ആണ് അത് ഈ നോഡിന്റെയും ഈ റഫറൻസ് നോഡിന്റെയും ഇടയിൽ ഉള്ള വോൾടേജ് ആണ് ചിലപ്പോൾ റഫറൻസ് നോഡിനെ ഗ്രൌണ്ട് നോഡ് എന്നും പരാമർശിക്കാറുണ്ട് അതുപോലെ തന്നെ നോഡ് 2 ന്റെയും റഫറൻസ് നോഡിന്റെയും ഇടയ്ക്കു ആണ് V2 നോഡ് 3 ന്റെയും റഫറൻസ് നോഡിന്റെയും ഇടയ്ക്കു ആണ് V3 ഞാൻ പ്രാഥമിക വോൾടേജ് ആയി ഈ V1 V2 V3 ഉപയോഗിച്ച് സമവാക്യം എഴുതും